സൂചക പദം വ്യതിക്രമം ഇന്റഗ്രേറ്റർ കൺട്രോളർ സ്റ്റെപ്പ് റെസ്പോൺസ് ഇന്റഗ്രേറ്റർ നിയന്ത്രണം സ്ഥിരത ഉയരുന്ന സമയം നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇവയെ പഠിച്ചു ഇനി ഉചിതമായ രീതിയിൽ ഒരു കൺട്രോളർ രൂപകൽപ്പന ചെയ്യുകയും വേണം ഇപ്പോൾ നമുക്ക് പെർഫോമൻസ് നോക്കാം അതായത് പെർഫോമൻസിൻറെ ആദ്യ ആവശ്യകത എന്താണ് പെർഫോമൻസിൻറെ ആദ്യ ആവശ്യകത പ്രകടനത്തെ നിയന്ത്രണത്തിൽ രണ്ട് തരങ്ങളായി തിരിക്കാം ഒന്നിനെ സ്റ്റെഡി സ്റ്റേറ്റ് എന്നും മറ്റൊന്ന് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് എന്നും വിളിക്കുന്നു പൊതുവേ സ്റ്റെഡി സ്റ്റേറ്റ് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് ക്കാൾ വളരെ കൂടുതലുമാണ് പ്രാധാന്യമുള്ളതും ആണ് കാരണം ആ പ്രകടനം വളരെ നീണ്ട ഇടവേളയിൽ നിൽക്കുന്നു സാധാരണയായി വ്യാവസായിക ഓട്ടോമേഷനിൽ സെറ്റ് പോയിന്റ് മാറ്റം വളരെ അപൂർവമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പവർ സ്റ്റേഷൻ ബോയിലർ എടുക്കുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ ഇത് പോയിന്റ് സജ്ജമാക്കുന്നത് സാധാരണയായി 7 8 9 തവണയോ അതിൽ കുറവോ ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് രാവിലെ ലോഡ് വരുമ്പോൾ അത് സെറ്റ് പോയിന്റ് മാറ്റും വൈകുന്നേരം ലോഡ് കുറയാൻ തുടങ്ങും അതിനുശേഷം നമുക്ക് 10 മണി അല്ലെങ്കിൽ 11 മണിക്ക് ലോഡ് കുറയുമ്പോൾ അപൂർവ്വമായി സെറ്റ് പോയിന്റ് മാറ്റങ്ങളുണ്ട് ഈ സെറ്റ് പോയിന്റുകൾ സാധാരണയായി പരിപാലിക്കപ്പെടുന്നു ഇത് ധാരാളം പ്രോസസ് ഉപകരണങ്ങൾക്ക് സംഭവിക്കുന്നു അതിനാൽ ആ ഘട്ടത്തിൽ നിലനിൽക്കുന്ന പ്രകടന നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ സെറ്റ് പോയിന്റ് മാറുമ്പോൾ അല്ലെങ്കിൽ ഹ്രസ്വകാല ദൈർഘ്യത്തിൽ സംഭവിക്കാവുന്ന പിശകുകളേക്കാൾ വളരെ ഗുരുതരമായി ഇത് കണക്കാക്കപ്പെടുന്നു അതിനാൽ സ്റ്റെഡി സ്റ്റേറ്റ് പ്രകടനം ഉറപ്പാക്കാൻ നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്നു അതിനുള്ള പ്രധാന പരിഗണന സ്ഥിരമായ വ്യതിക്രമം r എന്നത് Y ന് തുല്യമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു കുറഞ്ഞത് സ്റ്റെഡി സ്റ്റേറ്റ് അവസ്ഥയിലെങ്കിലും പക്ഷേ r പെട്ടെന്ന് മാറുകയാണെങ്കിൽ y പെട്ടെന്ന് മാറാൻ കഴിയില്ല അതിനാൽ y r ലെവലിലേക്ക് വരാൻ കുറച്ച് സമയമെടുക്കും പക്ഷേ ഒരിക്കൽ വന്നാൽ ഈ വ്യതിക്രമം 0 ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നമുക്ക് സ്ഥിരമായ വ്യതിക്രമം വേണം ഇതാണ് നമ്മളുടെ ആഗ്രഹം അതിനാൽ നമ്മൾ എങ്ങനെ നേടും T യുടെ പരിധിയായ സ്റ്റെഡി സ്റ്റേറ്റ് പിശകാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സാധാരണയായി നമ്മൾ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് പ്രതികരണം എടുക്കും റഫറൻസ് ഇൻപുട്ട് പെട്ടെന്ന് മാറുകയാണെങ്കിൽ സമയം കടന്നുപോകുമ്പോൾ വ്യതിക്രമം 0 ലേക്ക് പോകുന്നു അതായത് Lim t→∞ e നമുക്ക് ഇത് ഫ്രീക്വൻസി ഡൊമെയ്ൻ രൂപത്തിലും പ്രകടിപ്പിക്കാൻ കഴിയും ലാപ്ലേസ് പരിവർത്തനത്തിന്റെ അന്തിമ മൂല്യ സിദ്ധാന്തമാണെന്നും തെളിയിക്കാൻ കഴിയും ess Lim s → 0 1 1 G K അതിനാൽ ഇത് സ്റ്റെഡി സ്റ്റേറ്റ് വ്യതിക്രമാണ് ഇത് പൂജ്യത്തിലേക്ക് പോകുന്നുവെന്ന് നിയന്ത്രണത്തിലൂടെ ഉറപ്പുവരുത്തുക എന്നതാണ് പ്രധാന ആവശ്യകതകളിലൊന്ന് അതിനാൽ നമ്മൾ അത് എങ്ങനെ ചെയ്യും അതിനാൽ നമ്മൾ സീറോ സ്റ്റേറ്റ് സ്റ്റെഡി സ്റ്റേറ്റ് എന്നിവ നിയന്ത്രിക്കേണ്ടതുണ്ട് പ്രൊപോഷണൽ കൺട്രോൾ ഇൻറെ ലളിതമായ കേസ് എടുക്കാം പ്രൊപോഷണൽ കൺട്രോൾ ഇൻറെ പ്രശ്നം നിങ്ങൾക്ക് പ്രൊപോഷണൽ നിയന്ത്രണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലളിതമായ നേട്ടം മാത്രമേയുള്ളൂ നിങ്ങൾക്ക് 1 വോൾട്ടിന്റെ വ്യതിക്രമം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ 100 വോൾട്ട് ഔട്ട്പുട്ട് സൃഷ്ടിക്കുന്നു 2 വോൾട്ട് വ്യതിക്രമം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ 200 ന്റെ ഔട്ട്പുട്ട് സൃഷ്ടിക്കുന്നു അതിനാൽ ലളിതമായ ഗുണനം ആണിത് ഇപ്പോൾ ഈ y എന്നത് r യ്ക്ക് തുല്യമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ r എന്നത് നിശ്ചിത മൂല്യങ്ങളാണ് അതിനാൽ y യുടെ ഒരു നിശ്ചിത മൂല്യം നിലനിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ സ്വാഭാവികമായും അത് സംഭവിക്കുന്നു അതിനാൽ y ന്റെ ഒരു പ്രത്യേക മൂല്യം നിലനിർത്തുന്നതിന് നമുക്ക് u യുടെ ഒരു പ്രത്യേക മൂല്യം ആവശ്യമാണ് അതിനാൽ തൽക്കാലം ഇത് ഇല്ലെന്ന് കരുതുക ഇപ്പോൾ ഈ u നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇത് എങ്ങനെ നേടും അതിനുശേഷം നമുക്ക് e യുടെ ഒരു പ്രത്യേക മൂല്യം നിലനിർത്തേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ഒരു നിശ്ചിത അളവിലുള്ള സ്ഥിരമായ വ്യതിക്രമം ഇല്ലെങ്കിൽ നമുക്ക് u ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങൾക്ക് y സൃഷ്ടിക്കാൻ കഴിയില്ല അതിനാൽ പ്രൊപോഷണൽ കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് സ്ഥിരമായ വ്യതിക്രമം 0 ഒരിക്കലും വരുത്താൻ കഴിയില്ല അതിനാൽ സംഭവിക്കാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട് എന്നതാണ് നമുക്ക് ഈ r കൃത്രിമമായി വർദ്ധിപ്പിക്കാൻ കഴിയും അതായത് നിങ്ങൾക്ക് output 1 വോൾട്ടിൽ നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ 1 1 വോൾട്ടിന്റെ ഒരു r നൽകുന്നു നിങ്ങൾ കണക്കാക്കിയാൽ എന്ത് വോൾട്ട് നൽകണം എന്നാൽ നിങ്ങൾ കൃത്രിമമായി 1 1 വോൾട്ട് വർദ്ധിപ്പിക്കും അതിനാൽ ഇവിടെ നിങ്ങൾക്ക് 1 വോൾട്ട് ലഭിക്കും അത് നിങ്ങൾക്ക് ആവശ്യമുള്ള യഥാർത്ഥ ഔട്ട്പുട്ട് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് കൺട്രോളർ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഈ മാനുവൽ ബയസ് എന്നറിയപ്പെടുന്നവ നൽകാൻ കഴിയും അതിനാൽ നിങ്ങൾ പ്ലാന്റിലേക്ക് നേരിട്ട് ചില അധിക ഇൻപുട്ട് പ്രയോഗിക്കുന്നു അതിനാൽ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ചെയ്യുന്നു അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് നിലനിർത്താൻ കഴിയും എന്നാൽ എന്താണ് പ്രശ്നം പ്രധാന പ്രശ്നം ആരാണ് ഈ ഇൻപുട്ട് നൽകാൻ പോകുന്നത് നമുക്ക് എങ്ങനെ അറിയാം ഉദാഹരണത്തിന് നമ്മൾ എത്രത്തോളം 1 വോൾട്ടിന് 1 1 വോൾട്ട് നൽകണം 3 വോൾട്ടിന്റെ ഔട്ട്പുട്ട് വേണമെങ്കിൽ നമ്മൾ എന്ത് ഔട്ട്പുട്ട് നൽകണം സ്വാഭാവികമായും കൃത്രിമമായി സ്വാധീനിക്കാൻ പാടില്ല ഇത് യാന്ത്രികമായി ശരിയായി ചെയ്യണം അതിനാൽ സ്വമേധയാലുള്ള ഇടപെടലില്ലാതെ എങ്ങനെ ഈ ബയസ് ഇൻപുട്ട് സ്വപ്രേരിതമായി സൃഷ്ടിക്കാൻ കഴിയും എന്ന ചോദ്യത്തിലേക്ക് ഇത് നമ്മളെ കൊണ്ടെത്തിക്കുന്നു അതിനാൽ ചോദ്യം നമ്മൾ എങ്ങനെ 0 വ്യതിക്രമണത്തിന് ബയസ് എങ്ങനെ സൃഷ്ടിക്കാം അതിനാൽ ഈ സാഹചര്യം എന്തായിരിക്കണം എന്ന് ഇവിടെ വിവരിക്കുന്നു അതിനാൽ 0 പിശകിന് ഒരു ഔട്ട്പുട്ട് നൽകുന്ന ഉപകരണം എന്താണെന്ന് നമ്മൾ കാണുന്നു അതിനാൽ ആ ഉപകരണം യഥാർത്ഥത്തിൽ ഒരു ഇന്റഗ്രേറ്ററാണ് അതിനാൽ ലൂപ്പിൽ എവിടെയെങ്കിലും ഒരു ഇന്റഗ്രേറ്റർ ഉണ്ടായിരിക്കണം വ്യതിക്രമം 0 ആണെങ്കിൽ നമുക്ക് ഒരു പരിമിത ഔട്ട്പുട്ട് നൽകാൻ കഴിയും അതിനാൽ യഥാർത്ഥത്തിൽ ഒരു ഇന്റഗ്രേറ്റർ ആവശ്യമുള്ള രണ്ട് കേസുകളുണ്ട് ആദ്യ കേസ് ഇതാണ് സങ്കൽപ്പിക്കുക നിങ്ങൾക്ക് ഒരു ഇന്റഗ്രേറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ലാപ്ലേസ് ഡൊമെയ്ൻ നൊട്ടേഷനിൽ Ki S എഴുതി ഇതിനർത്ഥം ഇത് യഥാർത്ഥത്തിൽ ഒരു ഇന്റഗ്രേറ്ററാണ് അതായത് U ∫ Ki e d അതിനാൽ ഇതാണ് ഇന്റഗ്രേറ്റർ അതിനാൽ ഇത് u ന് തുല്യമാണ് ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്നു കുറച്ച് സമയത്തിന് ശേഷം ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് e ലഭിക്കുകയാണെങ്കിൽ പോലും e 0 ലേക്ക് പോകുന്നു അതിനാൽ വ്യതിക്രമം 0 ലേക്ക് പോകുന്നു എന്ന് കരുതുക ഇതാണ് y ഈ ലെവൽ r ഇതാണ് ലെവൽ അതിനാൽ ഇവിടെ വ്യതിക്രമം 0 ലേക്ക് പോകുന്നു പക്ഷേ ഇന്റഗ്രലിന്റെ മൂല്യം എന്തായിരിക്കും എന്തായിരിക്കും ബ്ലോക്കിന്റെ ഔട്ട്പുട്ട് ആകുക ഈ ബ്ലോക്കിന്റെ ഔട്ട്പുട്ട് കർവിന് കീഴിലുള്ള വിസ്തീർണ്ണം ആയിരിക്കും കാരണം ഇത് വ്യതിക്രമം ആണ് ഇത് y ഉം ഇത് r ഉം ആണ് അതിനാൽ r y ഈ ലംബമായ അകലമാണ് അതിനാൽ ഇതാണ് വിസ്തീർണ്ണം അതിനാൽ വ്യതിക്രമം 0 ആയി തുടരുകയാണെങ്കിൽ പ്പോലും ഈ വിസ്തീർണ്ണം പരിമിതമാണ് അതിനാൽ വ്യതിക്രമം 0 ആയിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഒരു പരിമിത u സൃഷ്ടിക്കാൻ കഴിയും നിങ്ങൾക്ക് അതിൻറെ ഉൽപ്പാദനം തുടരാം അതിനാൽ ഒരു ഇന്റഗ്രേറ്റർ ഉള്ളത് സഹായകരമാകുന്നു നിങ്ങൾക്ക് അടുത്ത ഒരു കേസ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു ഇന്റഗ്രേറ്റർ ഉണ്ടായിരിക്കാം ഈ ഇന്റഗ്രേറ്റർ യഥാർത്ഥത്തിൽ പ്ലാന്റിന്റെ ഭാഗമാണ് അതായത് ഔട്ട്പുട്ട് നിലനിർത്താൻ പ്ലാറ്റിന് എല്ലായ്പ്പോഴും ഒരു ഇൻപുട്ട് ആവശ്യമില്ല അതിനാൽ പ്ലാന്റ് തന്നെ ഒരു ഇന്റഗ്രേറ്റർ ആണ് ഇതിന്റെ ഒരു സാധാരണ ഉദാഹരണം ഒരു ടാങ്കാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു സിസ്റ്റം ഉണ്ടെന്ന് കരുതുക നമ്മളുടെ ടോയ്ലറ്റുകളിൽ ഉള്ളതുപോലെ അതിനാൽ നിങ്ങൾക്ക് ഒരു ഒഴുക്ക് ഉണ്ടാകാം ഈ ഒഴുക്ക് യഥാർത്ഥത്തിൽ ലെവലിനു ആനുപാതികമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ സിസ്റ്റത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം അവിടെ ഒരു ബോൾ കോക്ക് അഥവാ ഫ്ലോട്ടിംഗ് ബോൾ ഉണ്ട് അതിനാൽ വെള്ളമില്ലാത്തപ്പോൾ ബോൾ കോക്ക് ഇതുപോലെ തൂങ്ങിക്കിടക്കുന്നു വെള്ളം ഒഴുകുന്നു വെള്ളം ഉയരുമ്പോൾ ബോൾ കോക്ക് മുകളിലേക്ക് പോകുകയും ഒരു നിശ്ചിത തലത്തിൽ വാൽവിലൂടെ വെള്ളം ഒഴുകുന്നത് യഥാർത്ഥത്തിൽ അടയ്ക്കും അതിനാൽ ആ തലത്തിൽ ഇത് പരിപാലിക്കപ്പെടും അതിനാൽ ഈ ടാങ്ക് ഒരു പ്ലാന്റ് ആണ് ഒഴുക്കിനോടനുബന്ധിച്ച് ഒരു ഇന്റഗ്രേറ്റർ ഉണ്ട് കാരണം ലെവൽ എന്നാൽ ഒഴുക്കിന്റെ ഏകീകരണ ഘടകമാണ് അതിനാൽ ഒരു ഘട്ടത്തിൽ ഒരു ലെവൽ നിലനിർത്താൻ സാധിക്കും ഇത് ഒഴുക്ക് ആവശ്യമില്ലാത്ത ഒരു ലെവലാണ് അതിനാൽ ഒഴുക്ക് പൂജ്യത്തിലേക്ക് പോകാൻ കഴിയും നമുക്ക് ഒരു ലളിതമായ പ്രൊപോഷണൽ കൺട്രോൾ ഉണ്ട് പക്ഷേ വ്യതിക്രമം പൂജ്യ പ്രവാഹത്തിലേക്ക് പോയാലും ഇപ്പോഴും നില നിലനിർത്തുന്നു അതിനാൽ 0 സ്റ്റെഡി സ്റ്റേറ്റ് വ്യതിക്രമം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു സാഹചര്യമാണിത് ഇന്റഗ്രേറ്ററിന് എന്ത് സംഭവിക്കുന്നുവെന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ് മുമ്പ് ഉണ്ടായിരുന്ന ഈ ബയാസ് ഇൻപുട്ട് ഇപ്പോൾ വരുന്നത് യാന്ത്രികമായി വരുന്നു ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഏകീകരിച്ച ഔട്ട്പുട്ട് വർദ്ധിക്കുന്നത് ഇപ്പോഴും അതിന് കഴിയും എന്നിട്ട് അത് പൂജ്യത്തിലേക്ക് പോകുന്നു എന്നിട്ട് നിങ്ങൾ സെറ്റ് പോയിന്റ് വീണ്ടും ഇവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ ചില പിശകുകൾ സൃഷ്ടി ക്കപ്പെടും വീണ്ടും സമന്വയിപ്പിക്കുക അത് മതിയായ ഔട്ട്പുട്ട് സൃഷ്ടിക്കും അത് പിശകില്ലാതെ നിലനിർത്താൻ കഴിയും അതിനാൽ ഇങ്ങനെയാണ് ഇന്റഗ്രേറ്റർ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് ഇന്റഗ്രേറ്റർ യഥാർത്ഥത്തിൽ വളരെ രസകരമായി പ്രവർത്തിക്കുന്നു ഇന്റഗ്രേറ്റർ ഒരു ബയസ് ഇൻപുട്ട് നൽകുന്നു പക്ഷേ ഇത് മാനുവൽ അല്ല അതിനാൽ യഥാർത്ഥത്തിൽ ഇന്റഗ്രേറ്റർ ഒരു ബയസ് ഇൻപുട്ട് സ്വപ്രേരിതമായി സൃഷ്ടിക്കുന്നു അത് നിങ്ങൾ സ്വമേധയാ നൽകേണ്ടതില്ല മാത്രമല്ല നിങ്ങളുടെ സെറ്റ് പോയിന്റിനെ ആശ്രയിച്ച് അത് സ്വയം ക്രമീകരിക്കും അതിനാൽ ഇന്റഗ്രേറ്റർ സ്വപ്രേരിതമായി നിർമ്മിക്കുകയും പൂജ്യം പിശകിൽ അത് നിലനിർത്താൻ കഴിയുന്ന അധിക ഇൻപുട്ട് നൽകുകയും ചെയ്യും അതിനാൽ 0 സ്റ്റെഡി സ്റ്റേറ്റ് പിശക് ലഭിക്കുന്ന തത്വമാണിത് ഇപ്പോൾ ചില പോരായ്മകളും ഉണ്ട് എന്നതാണ് ഉദാഹരണത്തിന് നമുക്ക് ഒരു സ്റ്റെപ്പ് പ്രതികരണം നൽകിയാൽ അത് എങ്ങനെ പ്രവർത്തിക്കും ലൂപ്പ് എങ്ങനെ പ്രവർത്തിക്കും അതിനാൽ നമുക്ക് അത് കാണാം അതായത് പ്രക്രിയ ഇവിടെ നിന്ന് ആരംഭിക്കുന്നുവെന്ന് കരുതുക അതിനാൽ നിങ്ങൾ നൽകിയതുപോലെ വളരെയധികം പിശകുകളുണ്ട് പ്രൊപോഷണൽ കൺട്രോളർ ഇപ്പോൾ ഒരു പോസിറ്റീവ് ഇൻപുട്ട് സൃഷ്ടിക്കുന്നു അത് പ്ലാന്റിനെ നയിക്കുന്നു അതിനാൽ പ്ലാന്റ് ഔട്ട്പുട്ട് ഉയരുകയും സാധാരണഗതിയിൽ നമുക്ക് ഇതുപോലുള്ള ഒരു സ്റ്റെപ്പ് റെസ്പോൺസ് പ്രതികരണം ലഭിക്കുകയും ചെയ്യും അതിനാൽ ഈ ഘട്ടത്തിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ആനുപാതികമായ പോസിറ്റീവ് ഉണ്ട് പിശക് പോസിറ്റീവ് ആണ് അതിനാൽ ഔട്ട്പുട്ട് പോസിറ്റീവ് ആണ് പക്ഷേ പിശക് കുറയുന്നതിനാൽ ഔട്ട്പുട്ട് കുറയുന്നു അതിനാൽ ഇത് പോസിറ്റീവ് ആണ് പക്ഷേ താഴേക്ക് പോകുന്നു അതിനാൽ ആനുപാതികമായ കൺട്രോളറിന്റെ ഔട്ട്പുട്ട് അതാണ് അപ്പോൾ ഇന്റഗ്രൽ കൺട്രോളർ എന്താണ് ചെയ്യുന്നത് ഇന്റഗ്രൽ കൺട്രോളറും പോസിറ്റീവ് ആണ് കാരണം ഇത് പോസിറ്റീവ് പിശക് സമന്വയിപ്പിക്കുകയും അത് വർദ്ധിക്കുകയും ചെയ്യുന്നു കാരണം സമയം കഴിയുന്തോറും ഈ പ്രദേശം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ ഇത് പോസിറ്റീവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ ഈ പൂജ്യം പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത് ആനുപാതികമായ കൺട്രോളർ ഔട്ട്പുട്ട് പൂജ്യമാണ് പക്ഷേ ഇന്റഗ്രൽ കൺട്രോളർ ഔട്ട്പുട്ട് ഇപ്പോഴും പോസിറ്റീവ് ആയതിനാൽ പ്ലാന്റ് ഈ പാതയിൽ യാത്രയിൽ തുടരുന്നു ഇത് ഇവിടെ ആയിരിക്കുമ്പോൾ ഈ പോയിന്റിനു ചുറ്റുമുള്ള പ്രൊപോഷണൽ കൺട്രോൾ നെഗറ്റീവ് ആണ് പക്ഷേ ഇതിനകം തന്നെ ഒരു വലിയ പോസിറ്റീവ് ഇന്റഗ്രൽ ഇവിടെ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനാൽ I ഇപ്പോഴും പോസിറ്റീവ് ആണ് അതിനാൽ ഇവിടെ ഇന്റഗ്രലിന്റെ ഈ ഭാഗം നെഗറ്റീവ് ആണ് പക്ഷേ ഇപ്പോഴും ഇത് ഒരു വലിയ പോസിറ്റീവ് ഇന്റഗ്രൽ ആണ് അതിനാൽ മൊത്തത്തിലുള്ള നെറ്റ് ഔട്ട്പുട്ട് ഇപ്പോഴും പോസിറ്റീവ് ആയിരിക്കാം അതിനാൽ ഇത് ഈ യാത്രയിൽ തുടരുന്നു എന്നാൽ ഒടുവിൽ ഇന്റഗ്രൽ മൂല്യവും കുറയുകയും ആനുപാതികമായ കൺട്രോളർ മൂല്യവും നെഗറ്റീവ് ആകുകയും ചെയ്യുന്നു അതിനാൽ മൊത്തത്തിലുള്ള ഇൻപുട്ട് നെഗറ്റീവ് ആകുകയും പ്ലാന്റ് പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഇവിടെയും ഇതുതന്നെ സംഭവിക്കുന്നു അത് ഈ പരിധി മറികടന്നാൽ അത് ഓസിലേറ്റ് ചെയ്യും അതിനാൽ സാധാരണഗതിയിൽ അവിഭാജ്യ നിയന്ത്രണം കാരണം ഒരു ആന്ദോളനം ഉണ്ടാകുന്നതായി നിങ്ങൾ കാണുന്നു അതിനാൽ ഉയർന്ന ഓവർഷൂട്ടും ആന്ദോളനവും ഉണ്ടാകുന്നു അതിനാൽ ഇത് ഇന്റഗ്രൽ നിയന്ത്രണത്തിന്റെ ഒരു പോരായ്മയാണ് അതായത് സ്ഥിരമായ പിശക് നേടുന്നതിനാണ് നിങ്ങളുടെ ക്ഷണികമായ പ്രതികരണത്തിൽ നിങ്ങൾക്ക് കുറച്ച് ഓവർഷൂട്ട് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ നൽകുന്ന വിലയാണിത് സ്റ്റെപ്പ് പ്രതികരണത്തിനുള്ള ചിത്രം ഇതാണ് അതിനാൽ സ്റ്റെഡി സ്റ്റേറ്റ് പിശക് ഒഴിവാക്കാതെ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് മെച്ചപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾക്കത് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ മാത്രം നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട് അതുവഴി നമുക്ക് വേഗത്തിൽ തിരിയാൻ കഴിയും അതിനാൽ ഇപ്പോൾ നിങ്ങൾ വേഗത കുറയ്ക്കണം അതിനാൽ വേഗത കുറയ്ക്കുക എന്നതിനർത്ഥം ഈ ഘട്ടത്തിൽ നമ്മൾ കൂടുതൽ നെഗറ്റീവ് ഇൻപുട്ട് സൃഷ്ടിക്കേണ്ടതുണ്ട് ഇത് ഈ ഘട്ടത്തിലേക്ക് വളരും ഇത് അടുക്കുന്തോറും ഈ നെഗറ്റീവ് ഇൻപുട്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ അത് വേഗത്തിൽ തിരിയുകയും പിന്നീട് അത് വളരെ വേഗത്തിൽ പരിഹരിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾ കാണും അത് ഓസിലേറ്റ് ചെയ്യില്ല മറിച്ച് ഈ മഞ്ഞ വക്രത്തെ പിന്തുടരുന്നു ഒരുപക്ഷേ ഒരു ചെറിയ ഓവർഷൂട്ട് ചെയ്ത് ഉടനടി സ്ഥിരമാക്കുന്നു ഇത്തരത്തിലുള്ള വക്രമാണ് നമുക്ക് വേണ്ടത് അതിനാൽ ഇപ്പോൾ നമ്മൾ ചേർത്താൽ ഇത്തരത്തിലുള്ള വക്രത ലഭിക്കും പിശകിലേക്കുള് ഒരു ഡെറിവേറ്റീവ് പദം ഉണ്ട് അതിനാൽ നമ്മൾ ഉയരുന്ന സമയം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഓവർഷൂട്ട് കുറയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതാണ് ഈ ഉയരം ഒപ്പം സെറ്റിലിംഗ് സമയവും കുറയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതായത് ആകെ സമയം അതായത് സ്ഥിരമായ അവസ്ഥയിലേക്ക് വരാൻ എടുത്ത സമയം അതിനാൽ ഇവയെല്ലാം ഇപ്പോൾ കുറയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇതെല്ലാം ലഭിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനാലാണ് നിസ്സാരമല്ലാത്ത ട്യൂണിംഗ് വ്യായാമം നടത്തേണ്ടത് ഈ നിബന്ധനകൾക്കിടയിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് വരാമെന്ന് നിങ്ങൾക്കറിയാം സാധാരണഗതിയിൽ നമുക്ക് ഇത് നേടാൻ കഴിയും പ്രൊപോഷണലും ഇന്റഗ്രൽ കണ്ട്രോളറും നമ്മൾ ഇതിനകം ചർച്ചചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു ഡെറിവേറ്റീവ് ചേർക്കുന്നത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമെന്നും നമ്മൾ കണ്ടു അതിനാൽ ഇത് കൂടുതൽ ഓവർഷൂട്ടിലേക്ക് പോകില്ല കാണുക സ്ലൈഡ് സമയം 1727 അതിനാൽ നമുക്ക് പ്രൊപോഷണൽ ആയ ഒരു കൺട്രോളർ ആവശ്യമാണ് കാരണം നമുക്ക് ആനുപാതികമായ കൺട്രോളർ ഇല്ലെങ്കിൽ വളരെയധികം ആന്ദോളനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്റ്റെഡി സ്റ്റേറ്റ് പിശക് ഉണ്ടാകുന്നതിന് നമുക്ക് ഒരു ഇന്റഗ്രൽ കൺട്രോളർ ആവശ്യമാണ് കൂടാതെ കുറഞ്ഞ ഓവർഷൂട്ടും വേഗത്തിൽ പരിഹരിക്കാനുള്ള സമയവും ലഭിക്കാൻ നമുക്ക് ഒരു ഡെറിവേറ്റീവ് കൺട്രോളർ ആവശ്യമാണ് കൂടാതെ ഈ നേട്ടങ്ങൾ Kp Ki Kd എന്നിവ നന്നായി ട്യൂൺ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ നമുക്ക് സ്റ്റെഡി സ്റ്റേറ്റ് പിശകിൽ ത്യാഗം ചെയ്യാതെ മികച്ച ട്രാൻസിയൻറ്റ് പ്രതികരണം ലഭിക്കു അതായത് നമ്മൾ ഇപ്പോൾ ഇതുപോലുള്ള ഇൻപുട്ട് കണക്കാക്കുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്ഥിരമായ അവസ്ഥയിൽ e ആകെ പൂജ്യമാണ് അതിനാൽ ഈ പദം പൂജ്യമാണ് അതിനാൽ ആനുപാതികമായ കൺട്രോളർ പൂജ്യമാണ് മാത്രമല്ല ഇത് മാറാത്തതിനാൽ de dt ഉം പൂജ്യമാണ് അതിനാൽ അതും ഇല്ലാതാകുന്നു അതിനാൽ ഇന്റഗ്രൽ ഭാഗത്തു നിന്ന് വരുന്ന മുഴുവൻ ഔട്ട്പുട്ട് മാത്രമേ നമുക്ക് ലഭിക്കൂ അതിനാൽ ഇന്റഗ്രൽ നിയന്ത്രണത്തിനായി നിങ്ങൾ പഠിച്ച സീറോ സ്റ്റെഡി സ്റ്റേറ്റ് പിശക് ആശയം ശരിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇതുപോലുള്ള ഒരു നല്ല സ്റ്റെപ്പ് റെസ്പോൺസനായി തിരയുകയാണ് നമുക്ക് ഇത് കൂടുതൽ മൂർച്ചയുള്ളതാക്കാൻ കഴിയുമെങ്കിൽ അത് കൂടുതൽ മികച്ചതായിരിക്കും എന്നാൽ സാധാരണയായി ഇത് മൂർച്ചയുള്ളതാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് ഇതിലും മികച്ചതാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഇത് നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നല്ല സ്റ്റെപ്പ് റെസ്പോൺസ് ആണ് അതിനാൽ ഇപ്പോൾ ഡിസ്റ്റർബൻസ് നിരസിക്കാനുള്ള ഘട്ടത്തിലേക്ക് വരിക അപ്പോൾ എന്താണ് ഡിസ്റ്റർബൻസ് പ്രതികരണം നിരവധി തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ട് നിങ്ങൾക്ക് സമാനമായ വിശകലനം നടത്താൻ കഴിയും എന്നാൽ സാധാരണയായി സംഭവിക്കുന്ന ഏറ്റവും പ്രധാന ഡിസ്റ്റർബൻസ് ഒരു പ്രക്രിയയിലെ ലോഡ് ഡിസ്റ്റർബൻസ് ആണ് വസ്തുക്കളുടെ പ്രോപ്പർട്ടി വ്യതിയാനങ്ങൾ ഊർജ്ജ സ്രോതസുകളിലെ വ്യതിയാനങ്ങൾ വോൾട്ടേജുകൾ സമ്മർദ്ദ സ്രോതസുകളിലെ വ്യതിയാനങ്ങൾ എന്നിവ കാരണം ഇത് സംഭവിക്കുന്നു അതിനാൽ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ d0 ന്റെ പ്രഭാവം y ൽ കുറയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു Y d0 എന്നിവയ്ക്കിടയിലുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ് അതിനാൽ എല്ലാത്തരം ഡിസ്റ്റർബൻസ്കളെയും കൃത്യമായി നിർവീര്യമാക്കാൻ കഴിയില്ലെന്ന് നമ്മൾ കാണുന്നു പക്ഷേ ഒരു പ്രധാന തരം ഡിസ്റ്റർബൻസ് ആണ് സ്റ്റെപ്പ് ഡിസ്റ്റർബൻസ് എന്ന് നമുക്ക് പറയാം വീണ്ടും ആ ഡിസ്റ്റർബൻസ്സുകൾ ഒന്നോ രണ്ടോ തവണ മാറുകയും തുടരുകയും ചെയ്യും അതിനാൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ഡിസ്റ്റർബൻസ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വീണ്ടും കാണാൻ കഴിയും നിങ്ങൾക്ക് ഒരു ഇന്റഗ്രൽ ഉണ്ടെങ്കിൽ s പൂജ്യമാകുമ്പോൾ അപ്പോൾ ഈ പദം യഥാർത്ഥത്തിൽ വളരെ ഉയർന്നതായിരിക്കും അതിനാൽ അതേ കാരണത്താൽ സമാനമായ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുന്നു അതിനാൽ തന്നെ ഇന്റഗ്രൽ കൺട്രോളുമായി e പൂജ്യത്തിലേക്ക് പോകാനുള്ള അതേ കാരണം തന്നെയാണ് നിങ്ങൾ ഇന്റഗ്രൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാലും സ്റ്റെപ്പ് ഡിസ്റ്റർബൻസ്കളുടെ ഫലവും ഇല്ലാതാകും കാരണം ഇന്റഗ്രൽ മൂല്യം ഉയരും മാത്രമല്ല ഇത് ഡിസ്റ്റർബൻസ്സിനെ പരിപാലിക്കുന്നതിനുള്ള അധിക ടോർക്ക് നൽകും അതിനാൽ ഇത് ഒരു ഇന്റഗ്രൽ ഉൽപാദിപ്പിക്കും അത് ഉയരും y ഉൽപാദിപ്പിക്കുന്നതിനുപകരം അത് യാന്ത്രികമായി ഔട്ട്പുട്ട് y d0 നൽകും അല്ലെങ്കിൽ y d0 അതിനാൽ പ്ലസ് d0 ശേഷം നിങ്ങൾക്ക് y ന്റെ ആവശ്യമുള്ള മൂല്യം ലഭിക്കും അതിനാൽ ഡിസ്റ്റർബൻസ് പ്രതികരണം കുറയ്ക്കുന്നതിനുള്ള പ്രധാന മാർഗ്ഗങ്ങളിലൊന്നാണ് ഇന്റഗ്രൽ കൺട്രോൾ അതിനാൽ ഇപ്പോൾ മറ്റ് ചില പ്രശ്നങ്ങൾ നോക്കാം ഉദാഹരണത്തിന് ഇവ യഥാർത്ഥത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് അവ വളരെ പ്രായോഗിക പ്രശ്നങ്ങളാണ് കൂടാതെ നമ്മുടെ മുമ്പത്തെ കൺട്രോൾ കോഴ്സിൽ നമ്മൾ ഇവയെക്കുറിച്ച് പഠിച്ചിരിക്കില്ല അവിടെ നമ്മൾ കാര്യങ്ങളെ തികച്ചും അനുയോജ്യമായി പരിഗണിച്ചു എന്നാൽ മറ്റ് ചില നോൺ ഐഡിയ ലിനെസ് നിലവിലുണ്ട് എന്ന് നമ്മൾ ഇവിടെ ഓർക്കണം കാണുക സ്ലൈഡ് സമയം 2141 ഉദാഹരണത്തിന് പലപ്പോഴും ആക്ച്യുവേറ്റഡ് സാച്ചുറേഷൻ ഉണ്ടാകാം ഇതാണ് കൺട്രോൾ ഇൻപുട്ട് CI ഇതാണ് പ്ലാന്റ് ഇൻപുട്ട് PI അതിനാൽ ഇതാണ് ആക്ച്യുവേറ്റർ സ്വഭാവം അതിനാൽ നിങ്ങൾ നിയന്ത്രണ ഇൻപുട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ആക്യുവേറ്ററിൽ ആനുപാതികമായി പ്ലാന്റ് ഇൻപുട്ടും ഉൾപ്പെടും പക്ഷേ ഒരു നിശ്ചിത പോയിന്റ് വരെ മാത്രമേ അത് പൂരിതമാകൂ അതിനാൽ നിങ്ങൾ കൂടുതൽ നിയന്ത്രണ ഇൻപുട്ട് നൽകിയാൽ അത് ആനുപാതികമായി ഉയർന്ന പ്ലാന്റ് ഇൻപുട്ട് നൽകില്ല അതിനാൽ ഇത് സാധാരണയായി പൂരിതമായിരിക്കും ഇപ്പോൾ ആക്യുവേറ്റർ ഫലപ്രദമായി പൂരിതമാകുമ്പോൾ ഫീഡ്ബാക്ക് ലൂപ്പ് തുറക്കുന്നു കാരണം പിശകിന്റെ പ്രഭാവം ഇനി ഔട്ട്പുട്ടിലേക്കോ പ്ലാന്റ് ഇൻപുട്ടിലേക്കോ കൈമാറില്ല അതിനാൽ ഇൻപുട്ട് മാറില്ല പിശകിന് മറുപടിയായി പക്ഷേ സ്ഥിരമായി നിലനിൽക്കും അതിനാൽ ഒരു ഓപ്പൺ ലൂപ്പ് പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ നിയന്ത്രണം ഇല്ലാതാകും മാത്രമല്ല കൺട്രോളറുകൾക്ക് മെമ്മറി ഉള്ളതിനാൽ സ്ഥിരമായ ആക്ച്യുവേറ്റർ സാച്ചുറേഷൻ പ്രത്യേകിച്ച് കൺട്രോളറുകളിൽ വളരെ മോശമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് നമ്മൾ പിന്നീട് കാണും അതിനാൽ ഇത് പിഐഡി കൺട്രോളറുകളിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ ഇത് വളരെ വിശദമായി പരിശോധിക്കാൻ പോകുന്നു അതിനാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പ്രശ്നം സെൻസർ ബയസ് ആണ് അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെൻസർ ബയസ് ഉണ്ടെങ്കിൽ സെൻസറിന് പിശകുകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു സെൻസറുകൾ കൺട്രോളറിന്റെ കണ്ണുകളാണ് അതിനാൽ സെൻസർ എന്ത് കണ്ടാലും കൺട്രോളർ അതിൽ പ്രവർത്തിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ബയസ് ഉണ്ടെങ്കിൽ കൺട്രോളർ ഒരു ഇൻപുട്ട് സൃഷ്ടിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കും ഇതിൽ പൂജ്യം പിശക് ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പൂജ്യമല്ലാത്ത പിശക് ഉണ്ടാകും ചില മോഡലുകളെ അടിസ്ഥാനമാക്കി നിങ്ങൾ കൺട്രോളറുകൾ രൂപകൽപ്പന ചെയ്യുന്നു എന്നാൽ ഈ മോഡലുകൾ യഥാർത്ഥത്തിൽ എല്ലായ്പ്പോഴും കൃത്യം ആവുകയില്ല അതിനാൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും മോഡൽ പിശകുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഈ മോഡൽ പിശകുകൾ ഉയർന്ന ഫ്രീക്വൻസി ബാൻഡിൽ പ്രബലമാണ് ഉയർന്ന ഫ്രീക്വൻസി ബാൻഡിൽ നിങ്ങൾക്ക് കൃത്യതയില്ലെന്ന് ഇപ്പോൾ ഓർക്കുക യഥാർത്ഥത്തിൽ അസ്ഥിരത സംഭവിക്കുന്നത് ഉയർന്ന ഫ്രീക്വൻസി ബാൻഡിലാണ് ഡിസി ബാൻഡിലോ ലോ ഫ്രീക്വൻസി ബാൻഡിലോ അല്ല അതിനാൽ ഉയർന്ന ഫ്രീക്വൻസി ബാൻഡിൽ നിങ്ങൾക്ക് മോഡലിംഗ് പിശക് ഉണ്ടെങ്കിൽ അത്തരം മോഡലിംഗ് കൃത്യതയില്ലായ്മ സ്ഥിരത പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് നമ്മൾ ഓർക്കണം അതിനാൽ ഇവ ശ്രദ്ധിക്കാൻ മറ്റ് പലതരം ആർക്കിടെക്ചർ സാധ്യമാണ് നമുക്ക് ലൂപ്പ് ഘടനയുണ്ട് നമ്മൾ എന്ത് ഫീഡ്ബാക്ക് ഉപയോഗിക്കും നമ്മൾ കൺട്രോളറുകൾ എങ്ങനെ ഉപയോഗിക്കും അവയിൽ ചിലത് നമ്മൾ കാണും ഉദാഹരണത്തിന് ഫീഡ് ഫോർവേഡ് കോൺഫിഗറേഷൻ കാസ്കേഡ് കോൺഫിഗറേഷൻ എന്നിവപോലെ അവസാനമായി നമ്മൾ നിഗമനത്തിലേക്ക് പോകുമ്പോൾ നിയന്ത്രണത്തെ കുറിച്ച് എന്റെ ഇഷ്ടമുള്ള ചില വസ്തുതകൾ സംഭാഷണത്തിൽ പരാമർശിക്കാം അതിനാൽ ഫീഡ്ബാക്ക് എന്താണ് നിങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് ഞാൻ പറയാം അതിനാൽ കൺട്രോളർ കൃത്യമായി ഫീഡ്ബാക്ക് നിലനിർത്താൻ ശ്രമിക്കുന്നു അതിനാൽ നിങ്ങൾ ഫീഡ്ബാക്ക് പിശകാണെങ്കിൽ നിങ്ങളുടെ നിയന്ത്രണം തെറ്റാണ് നിങ്ങൾ മുറിയുടെ നടുവിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ താപനില സെൻസർ മുറിയുടെ മേൽക്കൂരയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താപനില നിയന്ത്രിക്കുന്നത് മുറിയുടെ മേൽക്കൂരയിൽ ആണ് മുറിയിലല്ല തുടർന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ കൺട്രോളറിൽ നിന്നുള്ള ഏത് ഔട്ട്പുട്ട് നൽകാം നിങ്ങൾ ഒരു ഫാൻസി അൽഗോരിതം ഉപയോഗിക്കുന്നുണ്ടാകാം പക്ഷേ നിങ്ങൾക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അത് നന്നായി നിയന്ത്രിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് മുൻകൂട്ടി കണക്കാക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അവ നികത്താനാകും ഇവ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുന്ന നിരവധി നൂതന അൽഗോരിതം ഉണ്ട് സ്ഥിരത മാത്രം പോരാ സ്ഥിരത എന്നത് അടിസ്ഥാനപരമായ പ്രകടനമാണ് നിങ്ങൾ സ്ഥിരത ഉറപ്പുവരുത്തുകയും പെർഫോമൻസ് ഉറപ്പാക്കുകയും വേണം നിങ്ങൾ പെർഫോമൻസ് ഉറപ്പാക്കുകയും നിങ്ങൾ കൂടുതൽ ഡ്രൈവ് ചെയ്യുകയും അത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്താൽ ഒടുവിൽ അസ്ഥിരത ഫലം നൽകുന്നു അതിനാൽ നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന പരമാവധി പ്രകടനം അസ്ഥിരത തീരുമാനിക്കുന്നു കൂടാതെ മോഡലുകൾ എല്ലായ്പ്പോഴും ഏകദേശമാണ് മിക്ക സിസ്റ്റങ്ങളും യഥാർത്ഥത്തിൽ നോൺ ലീനിയർ ആണെങ്കിലും നമുക്ക് ഏകദേശമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അർത്ഥമാക്കുന്നില്ല അതിനാൽ ലീനിയർ നിയന്ത്രണം നോൺലീനിയർ പ്ലാൻറ് കൾക്ക് നന്നായി പ്രവർത്തിക്കും പക്ഷേ ചിലപ്പോൾ ലീനിയർ നിയന്ത്രണം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം എന്നാൽ വ്യാവസായിക കൺട്രോളറുകളിൽ 95 രേഖീയമാണ് അതിനാൽ നമ്മൾ പാഠത്തിന്റെ അവസാനത്തിലെത്തി വേഗത്തിൽ അവലോകനം ചെയ്യാം അതിനാൽ നമ്മൾ യാന്ത്രിക നിയന്ത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ പരിശോധിച്ചു സ്ഥിരത നിലനിർത്തുക സെറ്റ് പോയിന്റ് പിന്തുടരുക നിരസിക്കുക ഡിസ്റ്റർബൻസ് നിരസിക്കുക നമ്മൾ സ്ഥിരതയിലേക്ക് നോക്കുകയും സ്ഥിരതയുടെ കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്തു പ്രോസസ്സ് ലൂപ്പിലെ അസ്ഥിരത കാരണം സ്റ്റെഡി സ്റ്റേറ്റ് പിശകും അത് കുറയ്ക്കുന്നതിനുള്ള വഴികളും നമ്മൾ പരിശോധിച്ചു കൂടാതെ സ്റ്റെഡി സ്റ്റേറ്റ് പിശക് പൂജ്യമായി നിലനിർത്തുന്ന ക്ഷണികമായ പ്രകടനം കുറയ്ക്കുന്നതിനുള്ള വഴികളും നമ്മൾ പരിശോധിച്ചു അതിനാൽ PID നിയന്ത്രണം വളരെ ലളിതവും ഫലപ്രദവുമായ മാർഗ്ഗമാണെന്ന് നമ്മൾ കണ്ടു ഒടുവിൽ PID നിയന്ത്രണത്തിന് വളരെ സാധാരണമായ അസ്വസ്ഥത നിരസിക്കലുകൾക്കും കഴിയുമെന്ന് നമ്മൾ കണ്ടു അതിനാൽ അതാണ് പാഠത്തിന്റെ അവസാനം നിങ്ങൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെയുണ്ട് ഒന്നാമത്തേത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഓട്ടോമാറ്റിക് നിയന്ത്രണത്തിന്റെ മൂന്ന് പ്രധാന ലക്ഷ്യങ്ങൾ പറയുക അടുത്തതായി ഒരു നിയന്ത്രണ ലൂപ്പിലെ അസ്ഥിരതയുടെ മൂന്ന് പ്രധാന കാരണം പറയുക കൂടാതെ ഇത് പരീക്ഷിക്കുക ഇത് അൽപ്പം ശ്രമകരമാണ് ഓരോ കേസിനും പ്രായോഗിക ഉദാഹരണം നൽകുക കൂടാതെ പ്രൊപോഷണൽ കൺട്രോളറിന് പൂജ്യം സ്റ്റെഡി സ്റ്റേറ്റ് പിശക് നേടാൻ കഴിയുമോ ഞാൻ ഇതിനകം ഒരു ഉദാഹരണം വിശദീകരിച്ചു നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ഇത് വിശദീകരിക്കാനും ഒരു പിഐഡി കൺട്രോളറിന് എങ്ങനെ മികച്ച അസ്ഥിരമായ പ്രകടനവും സ്റ്റെഡി സ്റ്റേറ്റ് പ്രതികരണവും നേടാനാകുമെന്ന് വിശദീകരിക്കാനും സ്റ്റെപ്പ് സെറ്റ് പോയിൻറുകളും അസ്വസ്ഥതകളും ഉപയോഗിച്ച് പിഐഡി നിയന്ത്രണം പൂജ്യം സ്റ്റെഡി സ്റ്റേറ്റ് പിശക് കൈവരിക്കുന്നുവെന്ന പ്രസ്താവനയെ ന്യായീകരിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നു വളരെ നന്ദി അടുത്ത പ്രഭാഷണത്തിൽ നമുക്ക് കാണാം